ആശംസകൾ മൊഡ്യൂൾ 3 യൂണിറ്റ് 9 ലേക്ക് സ്വാഗതം മെറിലിന്റെ ആദ്യ പഠന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഐഡി കഴിഞ്ഞ യൂണിറ്റിൽ മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവ സ്വയം ഒരു ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പന മാതൃകയല്ല ഈ യൂണിറ്റിൽ മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ ഡിസൈൻ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ഒരു അർത്ഥത്തിലും അദ്വിതീയമല്ലതനതായ ഒന്നല്ല പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്ത്വങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുള്ള മോഡലുകളിൽ ഒന്നാണിത് ഓർമ്മിക്കൽ മെറിൽ പ്രസ്താവിച്ച ആദ്യത്തെ അഞ്ച് പഠന തത്വങ്ങൾ ടാസ്ക് കേന്ദ്രീകൃത തത്വം സജീവമാക്കൽ തത്വം ഡെമോൺസ്ട്രേഷൻ തത്വം ആപ്ലിക്കേഷൻ തത്വം സംയോജന തത്വം ഇതെല്ലാം വളരെ ചുരുക്കത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് ആധികാരികമായ ഒരു യഥാർത്ഥ ലോക പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് പഠനം സംഭവിക്കേണ്ടത് അത് പഠിതാക്കൾ പരിശീലനം ആരംഭിക്കുമ്പോൾ പരിഹരിക്കേണ്ട ചുമതലയുമായി സാമ്യമുള്ളതാണ് പുതിയ അറിവ് സ്വീകരിക്കുന്നതിന് സഹായകമാകുന്ന മുൻകാല അറിവിനെ അടിസ്ഥാനമാക്കി ഒരു മാനസിക മാതൃക പഠിതാക്കൾ ഓർമ്മിക്കണമെന്ന് ആക്റ്റിവേഷൻ തത്വം പ്രധാനമായും പറയുന്നു പഠിതാക്കൾ നേടേണ്ട അറിവ് ആദ്യം ഇൻസ്ട്രക്ടർ അവതരിപ്പിക്കണം എന്ന് ഡെമോൺസ്ട്രേഷൻ തത്വം പറയുന്നു ആപ്ലിക്കേഷൻ തത്വം ഇവിടെയാണ് പഠിതാക്കൾ പുതുതായി നേടിയ അറിവ് പ്രയോഗിക്കുന്ന ഒരു ചുമതലയിൽ ഏർപ്പെടുന്നത് ഇന്റഗ്രേഷൻ തത്വം പറയുന്നത് വിദ്യാർത്ഥികൾ അവസാനം നേടിയ പുതിയ അറിവുകളെ പ്രതിഫലിപ്പിക്കുന്നു അവർക്ക് അറിയാവുന്ന നിലവിലുള്ള ചട്ടക്കൂടിലേക്ക് നിലവിലുള്ള മോഡലിലേക്ക് പുതിയ അറിവ് സംയോജിപ്പിച്ചിരിക്കുന്നു അവർ പുതിയ അറിവിനെ ഒരു മാനസിക മാതൃകയുടെ പശ്ചാത്തലത്തിൽ ആഗിരണം ചെയ്യുന്നു മെറിൽ പ്രസ്താവിച്ച പഠനത്തിന്റെ അഞ്ച് തത്വങ്ങൾ ഇവയാണ് സൂചിപ്പിച്ചതുപോലെ മെറിലിന്റെ തത്ത്വങ്ങൾ തങ്ങളുടേതായ ഒരു മാതൃകയോ ഇൻസ്ട്രക്ഷണൽ രീതിയോ അല്ല മെറിൽ തിരിച്ചറിഞ്ഞ ആദ്യത്തെ അഞ്ച് പഠന തത്വങ്ങളും നടപ്പിലാക്കുന്ന ഒരു ഐഡി മോഡൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു സാധ്യമായ മോഡലുകളിൽ ഒന്നാണിത് ഇവിടെ നിർദ്ദേശം ഇൻസ്ട്രക്ഷണൽ യൂണിറ്റുകളുടെ ഒരു ശ്രേണി ഉൾക്കൊള്ളുന്നു ഒരു നിർദ്ദിഷ്ട കോഴ്സ് ഔട്ട്കവുമായി അല്ലെങ്കിൽ യോഗ്യതയുമായി ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു കോഴ്സ് ഔട്ട്കത്തിന്റെ സ്വഭാവത്തെയും സങ്കീർണ്ണതയെയും ആശ്രയിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഒരു ഔട്ട്കവുമായി ബന്ധപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ സിഒ ഒരു കൂട്ടം കഴിവുകളിലേക്ക് വികസിപ്പിക്കുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ഒരു യോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കാം രണ്ടും സാധ്യമാണ് അത് ഇൻസ്ട്രക്ടർ ആണ് തീരുമാനിക്കുന്നത് ഇൻസ്ട്രക്ഷൻ എങ്ങിനെയാണ് ശരിക്കും രൂപകൽപ്പന ചെയ്യേണ്ടത് എന്ന് ADDIE മോഡലിൽ മുമ്പത്തെ ഒരു യൂണിറ്റിൽ നമ്മൾ കണ്ടതുപോലെ ഗണ്യമായ ചോയ്സ് ഉണ്ട് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റുകൾ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് ഇൻസ്ട്രക്ടർക്ക് ധാരാളം അവസരങ്ങളുണ്ട് അവളുടെ ചർച്ച ഉള്ളടക്കത്തെക്കുറിച്ചുള്ള അവളുടെ അറിവ് വിനിയോഗിക്കുന്നത് എങ്ങിനെയെന്ന് അവർക്കു തീരുമാനിക്കാം എന്നാൽ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ഒരു നിർദ്ദിഷ്ട CO യോഗ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻസ്ട്രക്ഷനിൽ തന്നെ അത്തരം ഇൻസ്ട്രക്ഷണൽ യൂണിറ്റുകളുടെ ഒരു ശ്രേണി അടങ്ങിയിരിക്കുന്നു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ തലത്തിലാണ് പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്ത്വങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത് അത്തരമൊരു മാതൃക മൊഡ്യൂൾ 2 ൽ നേരത്തെ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ അത് കൂടുതൽ വിശദമായി പരിശോധിക്കുകയും അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മെറിലിന്റെ അഞ്ച് പഠന തത്ത്വങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നുവെന്ന് കാണുകയും ചെയ്യും മെറിലിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ ഡയഗ്രമാറ്റിക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു ഇൻസ്ട്രക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ നടക്കുന്നത് കോഴ്സ് ഔട്ട്കം അല്ലെങ്കിൽ യോഗ്യതയെ കേന്ദ്രീകരിച്ചാണ് അതിനുചുറ്റും ഇൻസ്ട്രക്ഷന്റെ 4 ഘട്ടങ്ങൾ നടക്കുന്നു സജീവമാക്കലും പ്രചോദനവും ഡെമോൺസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രവർത്തികമാക്കൽ സംയോജനം ഇതാണ് മോഡൽ ഇത് ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ മാതൃകയാണ് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് എങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് കോഴ്സ് ഔട്ട്കമോ യോഗ്യതയോ മെറിലിന്റെ തത്വങ്ങളിൽ ചുമതലയുടെ പങ്ക് വഹിക്കുന്നു ഇൻസ്ട്രക്ഷന്റെ 4 ഘട്ടങ്ങളും ഒരു നിർദ്ദിഷ്ട CO യോഗ്യതയുടെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത് പഠനം ഈ സിഒ യോഗ്യതയെ കേന്ദ്രീകരിച്ചുള്ളതാണ് കൂടാതെ വിദ്യാർത്ഥികൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചുമതലകൾ ഇത് പ്രതിഫലിപ്പിക്കുന്നു അതിനർത്ഥം ഇൻസ്ട്രക്ടർ അവതരിപ്പിക്കുന്ന യഥാർത്ഥ ചുമതല അടിസ്ഥാനപരമായി പ്രസക്തമായ CO യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മെറിലിന്റെ ടാസ്ക് കേന്ദ്രീകൃത പഠന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സവിശേഷത ഇത് പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പഠനം നിർദ്ദിഷ്ട കഴിവിന്റെ പശ്ചാത്തലത്തിലാണ് സംഭവിക്കുന്നത്അതുപോലെ ആപ്ലിക്കേഷൻ ഡെമോൺസ്ട്രേഷൻ സജീവമാക്കൽ പ്രതിഫലനം എല്ലാം ഈ സിഒയെ കേന്ദ്രീകരിച്ചാണ് ഇത് ഒരു ടാസ്കിന്റെ പങ്ക് വഹിക്കുന്നു മെറിലിന്റെ ടാസ്ക് കേന്ദ്രീകൃത തത്വം CO യോഗ്യത കേന്ദ്രീകൃത തത്വമായി ഇവിടെ നടപ്പിലാക്കുന്നു ഇൻസ്ട്രക്ഷന്റെ ആദ്യ ഘട്ടം ശ്രദ്ധയും സജീവമാക്കലുമാണ് "ശ്രദ്ധ" എന്ന അധിക ഘടകം കൂടി ഉൾപ്പെടുത്തിയ മെറിലിന്റെ സജീവമാക്കൽ ഘട്ടമാണിത് ഈ "ശ്രദ്ധ" മെറിലിന്റെ തത്ത്വങ്ങളിൽ പരോക്ഷമായി പ്രകടമാണ് പക്ഷേ ഈ ഇൻസ്ട്രക്ഷണൽ മാതൃകയിൽ നമ്മൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഒരു പഠന തത്വമാണ് അത് യഥാർത്ഥ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സജീവമാക്കൽ പോലും ആരംഭിക്കുന്നതിനുമുമ്പ് ആദ്യം നമ്മൾ പഠിതാക്കളുടെ ശ്രദ്ധ നേടണം ഈ പ്രത്യേക CO യോഗ്യതയുടെ പ്രസക്തി നമ്മൾ പഠിതാക്കളെ മനസിലാക്കണം പഠിതാക്കളെ ക്ലാസ് മുറിയുമായി ഇടപഴകാൻ നമ്മൾ പ്രാപ്തരാക്കണം അതിനർത്ഥം ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ഷന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ആദ്യം വിദ്യാർത്ഥികളുടെ ശ്രദ്ധ നേടണം ഇത് പ്രചോദനാത്മക കഥകൾ ഉദാഹരണങ്ങൾ കേസ് പഠനങ്ങൾ സിമുലേഷനുകൾ എന്നിവയിലൂടെ നേടാം എല്ലാം സാധ്യമാണ് ഈ പ്രത്യേക കഴിവ് അവരുടെ തൊഴിലിന് എങ്ങനെ പ്രസക്തമാണെന്ന് ഇൻസ്ട്രക്ടർക്ക് വിശദീകരിക്കാൻ കഴിയും അവർക്ക് അനുയോജ്യമായ കേസ് പഠനങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും അവർ പ്രവർത്തിക്കുന്ന നിർദ്ദിഷ്ട ഡൊമെയ്നെ ആശ്രയിച്ച് അവർക്ക് വിവിധ ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും CO യോഗ്യതയുടെ പ്രസക്തി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുക ഇത് വളരെ പ്രധാനമാണ് മിക്കപ്പോഴും ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെയോ ഒരു കോഴ്സിന്റെയോ അവസാനം നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങനെ പരാതിപ്പെടുന്നു അതെ എനിക്ക് ഇത് ചെയ്യാൻ പ്രാപ്തിയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഴിവ് ആവശ്യമെന്ന് എനിക്ക് അറിയില്ല എന്റെ തൊഴിലുമായി ഈ കഴിവിന്റെ ബന്ധം എന്താണ് അത് എനിക്ക് വ്യക്തമല്ല ഇങ്ങനെയുള്ള പ്രതികരണം അത് പഠനത്തിന്റെ നല്ലൊരു അടയാളമല്ല ഈ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ CO കഴിവ് ബോധ്യപ്പെടുത്തുക അതിനുശേഷം മെറിൽ പറയുന്നതുപോലെ ആക്റ്റിവേഷൻ നടക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഇതിനകം തന്നെ അറിയാവുന്ന കാര്യങ്ങളുമായി പുതിയ പഠനത്തെ ബന്ധിപ്പിക്കാൻ കഴിയണം ഉചിതമായ ആവശ്യമുള്ള പ്രസക്തമായ ഒരു മാനസിക മാതൃക വിദ്യാർത്ഥികൾ ഉത്തേജിപ്പിക്കുന്നുവെന്ന് ഇൻസ്ട്രക്ടർ ഉറപ്പാക്കണം മുമ്പത്തെ പഠനവും ആവശ്യമായ മാനസിക മാതൃകയും സജീവമാക്കി അവ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർക്ക് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിവരാം വിദ്യാർത്ഥികളെ ചില ചർച്ചകളിൽ ഏർപ്പെടുത്താം ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികൾ പുതിയ ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറപ്പുവരുത്താൻ നേരിട്ടുള്ള ചില അധിക ഇൻസ്ട്രക്ഷൻ നൽകാം സാഹചര്യപരമായ നിയന്ത്രണങ്ങളെ ആശ്രയിച്ച് ചിലപ്പോൾ ഈ ഘട്ടം കൂടുതൽ സമയമെടുക്കും മുമ്പത്തെ പഠനത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് മാനസിക മാതൃക തിരിച്ചുവിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് ഇൻസ്ട്രക്ടർ ഗണ്യമായ അധിക പരിശ്രമം ചെലവഴിക്കേണ്ടതുണ്ട് കാരണം ആ ഓർമയില്ലാതെ പുതിയ അറിവ് ആഗിരണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ സജീവമാക്കൽ ഘട്ടം വളരെ പ്രധാനമാണ് സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യത്തെ ആശ്രയിച്ച് മുൻകാല അറിവിനെ അടിസ്ഥാനമാക്കി എല്ലാ പഠിതാക്കൾക്കും ഈ മാനസിക മാതൃക ഓർമ്മിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്താൻ ആദ്യം ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ സമയം ഇൻസ്ട്രക്ടർ ചെലവഴിക്കേണ്ടിവരാം ഇത് ചെയ്യുന്നതിന് വിവിധ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉപയോഗിക്കാം ഇൻസ്ട്രക്ടറുടെ പക്കലുള്ള വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളെ നമ്മൾ മുമ്പത്തെ യൂണിറ്റുകളിൽ കണ്ടു പഠന സന്ദർഭത്തിന്റെ പ്രത്യേകതയെ അടിസ്ഥാനമാക്കി ഇൻസ്ട്രക്ടർക്ക് പ്രസക്തമായ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനും കഴിയും ഇത് "എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്നു" "മോട്ടിവേഷണൽ സ്റ്റോറികൾ" "ക്ലാസ് ചർച്ചകൾ" "ക്വിസ്" "റീകാപ്പിറ്റലേഷൻ" "ഫീൽഡ് ട്രിപ്പ്" "ചില പ്രാഥമിക ഡാറ്റ ശേഖരിക്കുകയും ഡാറ്റ വിശകലനം നടത്തുകയും ചെയ്യുക" തുടങ്ങിയവ ആകാം ഇത് കുറച്ചുകൂടി ആധുനികമായ ആശയങ്ങളുടെ പരസ്പരബന്ധം എല്ലാം കാണിക്കുന്ന ഗ്രാഫിക് ഓർഗനൈസർ പോലെയും ആകാം ഇത് ഒരുതരം ഗ്രൂപ്പ് ചർച്ചയാകാം ഇത് പഠിതാക്കൾക്ക് ഒരുതരം ഓർമ്മപ്പെടുത്തൽ ആകാം ഉപയോഗിക്കാവുന്ന വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം എന്നാൽ ശ്രദ്ധ നേടേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ എല്ലാ പഠിതാക്കൾക്കും അവരുടെ മുമ്പത്തെ പഠനത്തെ അടിസ്ഥാനമാക്കി ഉചിതമായ ഒരു മാനസിക മാതൃക സജീവമാക്കാൻ കഴിയേണ്ടതും ആവശ്യമാണ് അത് പഠനത്തെ അനുയോജ്യമാക്കുകയും പഠിതാക്കളെ പുതിയ അറിവ് സ്വീകരിക്കാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു ഡെമോൺസ്ട്രേഷൻ മെറിലിന്റെ ഡെമോൺസ്ട്രേഷൻ ഘട്ടം പുതിയ വിവരങ്ങളുടെ അവതരണം ഇതിനെ മെറിൽ വിവരം എന്ന് വിളിക്കുന്നു പ്രസക്തമായ CO യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രശ്നത്തിന്റെ ഒന്നോ അതിലധികമോ ഉദാഹരണങ്ങൾ അവതരിപ്പിച്ച വിവരങ്ങൾ നിർദ്ദിഷ്ട സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കുമെന്ന് ഇത് കാണിക്കുന്നു ഇതിനെയാണ് മെറിൽ ചിത്രീകരണം എന്ന് വിളിക്കുന്നത് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നൈപുണ്യവുമായി പൊരുത്തപ്പെടണം അതായത് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന CO യോഗ്യതയുടെ വിജ്ഞാന നിലയും വിജ്ഞാന വിഭാഗവും പൊതുവായ വിവരങ്ങളോ ഒരു ഓർഗനൈസിംഗ് ഘടനയോ പ്രത്യേക സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്താൻ പഠിതാക്കളെ നയിക്കണം ഇത് പിന്നീട് നിലവിലുള്ള ചട്ടക്കൂടിലേക്ക് സമന്വയിപ്പിക്കാൻ അവർക്ക് കഴിയണം പക്ഷേ അതിനായി അവർ ആദ്യം നേടിയ പുതിയ അറിവിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടന ഉണ്ടായിരിക്കണം നിർദ്ദിഷ്ട ആപ്ലിക്കേഷനുകളുമായി പൊതുവായ തത്ത്വങ്ങൾ ബന്ധിപ്പിക്കാൻ അവർക്ക് കഴിയണം ഡെമോൺസ്ട്രേഷൻ ആവശ്യങ്ങൾക്കായി ഇൻസ്ട്രക്ടർക്ക് ഒരു ഇൻസ്ട്രക്ഷണൽ ഘടകമുണ്ട്അത് CO യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഒരു സംവേദനാത്മക പ്രഭാഷണം ഒരു മൾട്ടിമീഡിയ അവതരണം സിമുലേഷനുകൾ പരമ്പരാഗത ചോക്ക് ബോർഡ് അവതരിപ്പിക്കാൻ കഴിയുന്ന ചില ഉദാഹരണ പ്രശ്നങ്ങൾ എന്നിവ ആകാം ചിലപ്പോൾ ഇത് ഒരു ഫീൽഡ് ട്രിപ്പ് ആകാം അവിടെ എന്തെങ്കിലും പ്രദർശിപ്പിക്കും ചില പരീക്ഷണങ്ങൾ നടത്തി ഫലങ്ങൾ പ്രദർശിപ്പിക്കുന്ന ലബോറട്ടറിയിലെ ചില പ്രവർത്തനങ്ങളാകാം ഇത് ഇത് വീണ്ടും ഗ്രാഫിക് ഓർഗനൈസർ അല്ലെങ്കിൽ വിപുലമായ ആധുനിക ഗ്രാഫിക് ഓർഗനൈസർ ആകാം ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളിൽ ഏതെങ്കിലും ഏത് കോമ്പിനേഷനും സാധ്യമാണ് പ്രസക്തമായ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ തിരഞ്ഞെടുത്ത് CO യോഗ്യത സൂചിപ്പിക്കുന്നത് പോലെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുത്തേണ്ടത് പൂർണ്ണമായും ഇൻസ്ട്രക്ടറുടെ ഉത്തരവാദിത്തവും പ്രത്യേകാവകാശവുമാണ് ഏറ്റവും പ്രധാനം ഡെമോൺസ്ട്രേഷൻ സിഒ യോഗ്യതയുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് പൊരുത്തപ്പെടുക എന്നാൽ പ്രധാനമായും വിജ്ഞാന നിലയും വിജ്ഞാന വിഭാഗവും അനുസരിച്ച് ഇതൊഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും മോഡൽ ലളിതമാണ് ഇൻസ്ട്രക്റ്ററിനു പ്രസക്തമെന്നു തോന്നുന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തുടർന്ന് മെറിൽ പ്രയോഗിക്കുക എന്ന് വിളിക്കുന്ന "പ്രയോഗിക്കുക ഇടപഴകുക" എന്ന ഘട്ടമാണ് പുതുതായി നേടിയ അറിവ് പഠിതാക്കൾ പ്രയോഗിക്കുന്ന ഘട്ടമാണിത് പഠിതാക്കൾ പുതുതായി നേടിയ അറിവുകളുമായി ഇടപഴകുകയോ പ്രയോഗത്തിൽ വരുത്തുകയോ ചെയ്യണം ഒപ്പം കഴിവുകളുമായി പൊരുത്തപ്പെടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുകയും വേണം ഒരിക്കൽ കൂടി പ്രശ്നം പരിഹരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു നടപടിക്രമത്തിന്റെ പ്രയോഗമാണെന്ന് അർത്ഥമാക്കുന്നില്ല അത് CO യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു ഒരു പുതിയ ഉദാഹരണം നൽകുമ്പോൾ പുതിയ ഉദാഹരണം ഉൾപ്പെടുന്ന ക്ലാസ് ശരിയായി വർഗ്ഗീകരിക്കാൻ പഠിതാക്കൾക്ക് കഴിയണം മനസ്സിലാക്കുന്നതിന്റെ ഉപ പ്രക്രിയകളിലൊന്നാണ് വർഗീകരണം ക്ലാസിഫൈ ഒരു പുതിയ ഉദാഹരണം ശരിയായി വർഗ്ഗീകരിക്കാൻ പഠിതാവിന് കഴിയുമെങ്കിൽ അത് പ്രകടമാക്കുന്നത് മനസിലാക്കുക എന്ന കഴിവാണ് ഒരു പ്രശ്നം പരിഹരിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് CO യോഗ്യതയ്ക്ക് അനുസൃതമായി പഠിതാക്കൾക്ക് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയണം പൊതുവായ അർത്ഥത്തിൽ ആ CO യോഗ്യതയ്ക്ക് പ്രസക്തമായ രീതിയിൽ അതിനാൽഡെമോൺസ്ട്രേഷന് ശേഷം പഠിതാവ് പുതിയ വിവരങ്ങളോടും കഴിവുകളോടും ഉടനെ തന്നെ അല്ലെങ്കിൽ കുറഞ്ഞ സമയ ഇടവേളക്കുള്ളിൽ ഏർപ്പെടണം ഇത് മെറിലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് മിക്കപ്പോഴും ക്ലാസ് റൂം സാഹചര്യത്തിൽ ചില ഇൻസ്ട്രക്ടർമാർക്ക് അത് നഷ്ടമായേക്കാം പുതിയ അറിവ് സ്വായത്തമാക്കുന്നതും പഠിതാക്കൾ പ്രയോഗിക്കുന്നതും തമ്മിൽ വളരെ നീണ്ട ഇടവേള ഉണ്ടെങ്കിൽ പഠനം മിക്കവാറും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പുതുതായി നേടിയ അറിവ് ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ പഠിതാക്കൾ പ്രശ്നവുമായി ഇടപഴകാൻ തുടങ്ങുമ്പോൾ മികച്ച പഠനമായിരിക്കും സംഭവിക്കുക ഇൻസ്ട്രക്ടറുടെ ഡെമോൺസ്ട്രേഷനും പഠിതാക്കളുടെ ആപ്ലിക്കേഷനും തമ്മിലുള്ള ദൂരം കഴിയുന്നത്ര ചെറുതായിരിക്കണം ഇത് സാധ്യമാണെങ്കിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ആകണം ചില സാഹചര്യങ്ങളിൽ ഇത് ശരിക്കും പ്രായോഗികമാകണമെന്നില്ല എന്നാൽ പുതിയ വിവരങ്ങൾ നേടിയ ശേഷം പഠിതാക്കൾ ഒരു ടാസ്കിൽ കഴിയുന്നത്ര വേഗത്തിൽ ഇടപഴകുന്നുവെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പുതുതായി നിർമ്മിച്ച മാനസിക മാതൃകയുടെ കൃത്യതയും പര്യാപ്തതയും ഉറപ്പുവരുത്തുന്നതിന് പഠിതാക്കൾക്ക് സ്വതസിദ്ധമായ അല്ലെങ്കിൽ തിരുത്തൽ ഫീഡ്ബാക്ക് ലഭിക്കണം CO യോഗ്യതയെ ആശ്രയിച്ച് പഠിതാക്കൾക്ക് ഉചിതമായ ഫീഡ്ബാക്ക് നൽകണം ഇതും കഴിയുന്നത്ര ഉടനടി ആയിരിക്കണം ഡെമോൺസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫീഡ്ബാക്ക് എന്നിവയിലൂടെ പഠനം ശരിക്കും ആഴമുള്ളതാകുന്നതിന് അവയ്ക്കിടയിൽ വളരെ ചെറിയ വിടവുകളോടെ അവ സംഭവിക്കണം ഒരു പുതിയ പ്രശ്നത്തിലേക്ക് അവരുടെ അറിവ് പ്രയോഗിക്കാനുള്ള കഴിവ് പ്രകടിപ്പിച്ചതിന് ശേഷം പഠിതാക്കൾക്ക് എത്രയും വേഗം ശരിയായ ഫീഡ്ബാക്ക് നൽകുമെന്ന് ഇൻസ്ട്രക്ടർ ഉറപ്പാക്കണം പഠിതാക്കൾ ഒരിക്കൽ പ്രശ്നവുമായി ഇടപഴകിയാൽ അവർക്ക് കഴിയുന്നതും വേഗത്തിൽ ഫീഡ്ബാക്ക് ലഭിക്കണം പ്രശ്നവുമായി ഇടപഴകുന്നത് ഒരു ക്വിസ് അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ടേം പേപ്പർ എന്നിവ വഴി ആകാം വിദ്യാർത്ഥികളെ പ്രശ്നവുമായി ഇടപഴകാൻ ഉപയോഗിക്കുന്ന യഥാർത്ഥ വിദ്യയുടെ സ്വഭാവം എന്തായാലും ഫീഡ്ബാക്ക് കഴിയുന്നത്ര ചെറിയ ഇടവേളയിൽ തന്നെ നൽകണം പരിശീലനം സൂചനകൾ നൽകുന്നത് വഴി പഠനത്തെ മെച്ചപ്പെടുത്താൻ കഴിയും പക്ഷേ കോച്ചിംഗ് ക്രമേണ പിൻവലിക്കണം പ്രാരംഭ ഘട്ടത്തിൽ കോച്ചിംഗ് കൂടുതൽ വിപുലമായേക്കാം പ്രശ്നങ്ങൾക്ക് യഥാർത്ഥത്തിൽ സങ്കീർണ്ണത കുറവാണ് പക്ഷേ പരിശീലനം കൂടുതൽ വിപുലമാണ് എന്നാൽ പഠിതാക്കൾ കൂടുതൽ സങ്കീർണ്ണമായ പ്രശ്നങ്ങളിൽ അവരുടെ അറിവ് പ്രയോഗിക്കാൻ ആരംഭിക്കുകയും ആത്മവിശ്വാസം നേടുകയും ചെയ്യുമ്പോൾ പരിശീലനം ക്രമേണ പിൻവലിക്കണം അവസാനം ഇൻസ്ട്രക്ടറുടെ സീറോ കോച്ചിംഗ് ഉപയോഗിച്ച് സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നതാണ് ലക്ഷ്യം വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്ന ജോലികളുടെ പുരോഗതി അതായിരിക്കണം ഇൻസ്ട്രക്ടർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ നമുക്കറിയാം കുറിപ്പ് നിർമ്മാണം സംഗ്രഹി ക്കൽ വ്യക്തിഗത പ്രശ്ന പരിഹാരം പരിശീലനം വ്യായാമ പ്രശ്നങ്ങളുടെ അർത്ഥത്തിൽ ഗ്രൂപ്പ് പ്രശ്ന പരിഹാരം റിപ്പോർട്ട് എഴുതുക അവതരണങ്ങൾ നടത്തുക ഗ്രൂപ്പ് ചർച്ചകൾ മുതലായവ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ സാധ്യമാണ് സിഒയെയും യോഗ്യതയെയും അടിസ്ഥാനമാക്കി ഇൻസ്ട്രക്ടർ ഈ ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുടെ ഉചിതമായ മിശ്രിതം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് മെറിലിന്റെ സംയോജന ഘട്ടം അടിസ്ഥാനപരമായി പഠിതാക്കൾ പ്രതിഫലിപ്പിക്കുകയും സമപ്രായക്കാരുമായി ചർച്ച ചെയ്യുകയും പുതുതായി നേടിയ അറിവും കഴിവുകളും സംരക്ഷിക്കുകയും നിലവിലുള്ള മാനസിക മാതൃകയുമായി അവരെ ബന്ധിപ്പിക്കുകയും വേണം പഠിതാക്കൾ നേടിയ അറിവ് കൂടുതൽ കാലം നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് നിരവധി പരീക്ഷണങ്ങളിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെന്നും മെറിൽ പരാമർശിക്കുന്നു പുതുതായി നേടിയ അറിവിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുമ്പോൾ അവർക്ക് ഒരു പൊതു ഡെമോൺസ്ട്രേഷൻ നടത്താൻ കഴിയുമ്പോൾ സഹപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ അവർക്ക് കഴിയുമ്പോൾഇതൊക്കെ ചെയ്യുമ്പോഴെല്ലാം പുതിയ അറിവിനെ അവരുടെ നിലവിലുള്ള മാനസിക ചട്ടക്കൂടിലേക്ക് കൂടുതൽ നന്നായി സമന്വയിപ്പിക്കാൻ അവർക്ക് കഴിയും അത്തരം സന്ദർഭങ്ങളിൽ പഠിതാക്കൾക്ക് ഇത് വളരെക്കാലം നിലനിർത്താൻ കഴിയും ഈ പഠനവും അവർ എത്രത്തോളം ഓർമ്മിക്കുന്നുവെന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നതിന്റെ തുടർന്നുള്ള ഘട്ടവും തമ്മിൽ വളരെ നീണ്ട ഇടവേളയുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചില നിർദ്ദിഷ്ട വിശദാംശങ്ങൾ മറക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിശാലമായ ആപ്ലിക്കേഷൻ സന്ദർഭം തത്ത്വങ്ങൾ അറിവിന്റെ പ്രധാന സവിശേഷതകൾ എന്നിവ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഫലനം നടത്തുമ്പോൾ കൂടുതൽ കാലം നിലനിർത്തുന്നുവെന്ന് കണ്ടെത്തി ഈ സംയോജന ഘട്ടത്തിൽ ഏർപ്പെടാൻ അധ്യാപകർ പഠിതാക്കളെ പ്രോത്സാഹിപ്പിക്കണം അത് വളരെ അത്യാവശ്യമാണ് ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങൾ വീണ്ടും ക്ലാസ് മുറിയിലെ ചർച്ച ഗ്രൂപ്പ് ചർച്ച ക്വിസ് സംഗ്രഹം എന്നിവയൊക്കെ ആകാം വാസ്തവത്തിൽ മറ്റൊരു നല്ല കാര്യം അവരുടെ പ്രതിഫലനങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ജേണൽ എഴുതുക എന്നതാണ് തീർച്ചയായും ജേണലുകൾ എങ്ങനെ എഴുതാമെന്നും ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് കാരണം അവയെല്ലാം അവർക്കു പരിചിതമല്ലായിരിക്കാം വാസ്തവത്തിൽ നിരവധി ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആ ഘടകത്തെക്കുറിച്ച് പരിചയമുണ്ടെന്ന് ഇൻസ്ട്രക്ടർ ഉറപ്പാക്കേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യാം അതിനാൽ ആവശ്യമെങ്കിൽ ഇൻസ്ട്രക്ടർ കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടിവരാം ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നേരിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നൽകാം കൂടാതെ ഈ ഘട്ടത്തിലാണ് അടിസ്ഥാനപരമായി നേടിയ പുതിയ അറിവിന്റെ ഏകീകരണം സംഭവിക്കുന്നത് അതിനാൽ ഇത് അവഗണിക്കരുത് ഇത് ഉചിതമായ രീതിയിൽ ഇൻസ്ട്രക്ടർ കൈകാര്യം ചെയ്യണം മൊഡ്യൂൾ 2 ൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ ഘടന ഇവിടെ കാണിച്ചിരിക്കുന്നു ആദ്യം നമുക്ക് യോഗ്യതാ പ്രസ്താവനയോ കോഴ്സ് ഔട്ട്കത്തിന്റെ പ്രസ്താവനയോ ഉണ്ട്അതിനു ശേഷം ശ്രദ്ധ സജീവമാക്കൽ അതിനുശേഷം നമുക്ക് ഒരു സൈക്കിൾ ഉണ്ട് ഡെമോൺസ്ട്രേഷനും അതിനു ശേഷം ആപ്ലിക്കേഷൻ ഈ ചക്രം എത്ര തവണ ആവർത്തിക്കുന്നു എന്നത് കോഴ്സ് ഔട്ട്കത്തെയോ യോഗ്യതയെയോ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു ഡെമോൺസ്ട്രേഷന്റെയും ആപ്ലിക്കേഷന്റെയും ഈ വിഭജനം ഇൻസ്ട്രക്ടർ തീരുമാനിക്കുന്നു ഒടുവിൽ ഈ സംയോജന ഘട്ടവും ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഒരു കോഴ്സ് ഔട്ട്കവുമായി ബന്ധപ്പെടുത്താം അല്ലെങ്കിൽ മതിയായ വ്യാപ്തിയും സങ്കീർണ്ണതയും ഉണ്ടെങ്കിൽ അത് ഒരു നിർദ്ദിഷ്ട കഴിവുമായി ബന്ധപ്പെടുത്താം അതായത് ഡെമോൺസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ചക്രം ഒരു കോഴ്സ് ഔട്ട്കത്തിന്റെ തലത്തിലോ അല്ലെങ്കിൽ യോഗ്യതയുടെ തലത്തിലോ സംഭവിക്കാം ഇത് വീണ്ടും ഇൻസ്ട്രക്ടറുടെ വിവേചനാധികാരമാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തിയതാണ് ഇപ്പോൾ ഇത് അടിസ്ഥാനപരമായി മെറിലിന്റെ മാതൃകയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് മെറിലിന്റെ ആദ്യത്തെ അഞ്ച് പഠന തത്ത്വങ്ങൾ നടപ്പിലാക്കുന്നു അങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ഘടന മുമ്പ് അവതരിപ്പിച്ചത് ഈ ഉദാഹരണം മുമ്പത്തെ യൂണിറ്റിൽ നിന്നും എടുത്തിട്ടുണ്ട് മൊഡ്യൂൾ 2 ഇവിടെ ഒരു സിഒ ഉണ്ടെന്നും നേടുന്ന ആ കഴിവ് ഡിസൈൻ പ്രിസിഷൻ റക്റ്റിഫയർ ഡിസി വോൾട്ടേജ് റെഗുലേറ്ററുകൾ എന്നിവയാണ് എത്ര മണിക്കൂർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്പ്രത്യേക CO യും വ്യക്തമാക്കുന്നു എന്നിട്ട് അത് പ്രസക്തിയിലൂടെ കടന്നുപോകുന്നു അതിനെ പ്രധാനമായും നമ്മൾ ശ്രദ്ധ എന്ന് വിളിക്കുന്നു അതായത് ഈ പ്രത്യേക കഴിവ് അവരുടെ തൊഴിലിന് എങ്ങനെ പ്രസക്തമാണെന്ന് വിദ്യാർത്ഥികൾക്ക് വ്യക്തമാക്കുന്നു ഇത് വളരെ വിശദമായി പറയേണ്ടതില്ല നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇതിന് 3 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത് പക്ഷേ ഇത് മതിയാകും പ്രധാനമായും എന്താണെന്നു വച്ചാൽ ആപ്ലിക്കേഷൻ 1 ഇതിന്റെ പ്രസക്തി വിദ്യാർത്ഥികൾ കാണുന്നു എന്നതാണ് തുടർന്ന് നമുക്ക് വീണ്ടും ഡെമോൺസ്ട്രേഷൻ 2 ആപ്ലിക്കേഷൻ 2 ഉണ്ട് ഇത് ഉൾപ്പെട്ടിരിക്കുന്ന നിർദ്ദിഷ്ട കഴിവിനെ ആശ്രയിച്ച് കൂടുതൽ സൈക്കിളുകൾ ചെയ്യാം ഈ ഉദാഹരണത്തിൽ നമുക്ക് രണ്ട് ചക്രങ്ങൾ മാത്രമേയുള്ളൂഡെമോൺസ്ട്രേഷൻ 1 ആപ്ലിക്കേഷൻ 1 തുടർന്ന് ഡെമോൺസ്ട്രേഷൻ 2 ആപ്ലിക്കേഷൻ 2 എന്നിവയുണ്ട് തുടർന്ന് ഒരു സംയോജന ഘട്ടമുണ്ട് ഇവിടെ ഇൻസ്ട്രക്ടർ സംയോജന ഘട്ടം സുഗമമാക്കുന്നതിന് ഇൻസ്ട്രക്ഷണൽ ഘടകമായി ചർച്ച തിരഞ്ഞെടുത്തു കൃത്യമായ റെക്ടിഫികേഷനും വോൾട്ടേജ് നിയന്ത്രണവും ഉൾപ്പെടെ രണ്ട് പ്രധാന സിഗ്നൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷനുകൾ നേടുന്നതിൽ ഒരു ഒപി ആമ്പിനു ചുറ്റുമുള്ള ഫീഡ്ബാക്കിന്റെ പങ്ക് ചർച്ചചെയ്യുക തിരഞ്ഞെടുത്ത രീതി ചർച്ചയാണ് മെറിലിന്റെ അഞ്ച് പഠന തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായ കോഴ്സിൽ നിന്ന് തിരഞ്ഞെടുത്ത യോഗ്യതയ്ക്കായി ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് വികസിപ്പിക്കുക ഈ വ്യായാമങ്ങൾ മുമ്പത്തെ യൂണിറ്റിലും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മെറിലിന്റെ പഠനത്തിന്റെ ആദ്യത്തെ അഞ്ച് തത്ത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാധ്യമെങ്കിൽ നിങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന നിർദ്ദിഷ്ട ഘടകങ്ങളുമായും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിർദ്ദിഷ്ട ഇൻസ്ട്രക്ഷണൽ ഘടകങ്ങളുമായും ഉചിതമായ മെറിലിന്റെ തത്വത്തെ യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുക ആ പ്രത്യേക മെറിലിന്റെ തത്ത്വത്തെ അത് എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വിശദീകരണം നൽകാൻ കഴിയുമെങ്കിൽ അത് വളരെയധികം സഹായിക്കും മെറിലിന്റെ തത്ത്വങ്ങൾ എങ്ങിനെ ഉപകാരപ്രദമാണ് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു നല്ല മാർഗമാണിത്അതായത് അവ എങ്ങിനെ ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പനയെ സഹായിക്കുന്നു അവിടെ എന്താണുള്ളതെന്ന് വിവരിക്കുക മാത്രമല്ല അവിടെ എന്തായിരിക്കണമെന്ന് കൂടി അത് പറയുന്നു ഇത് സ്വഭാവത്തിൽ വളരെ ചുരുങ്ങിയതാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യാസം ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രൂപകൽപ്പന ചെയ്യുന്നതിന് മെറിലിന്റെ അഞ്ച് പഠന തത്ത്വങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കാൻ സഹായിക്കും അഭ്യാസത്തിന്റെ ഫലം പങ്കിട്ടതിന് നന്ദി story com അടുത്ത യൂണിറ്റിൽ നേരിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കും ഇൻസ്ട്രക്ഷണൽ രൂപകൽപ്പനയുടെ ഒരു ക്ലാസിക്കൽ മോഡൽ ഒരുപക്ഷേ നമ്മിൽ മിക്കവർക്കും പരിചിതമായ ഒന്ന് ആയിരിക്കാം പക്ഷേ നമ്മൾ അതിനെ ഒന്ന് കൂടി കൂടുതൽ ചിട്ടയായ രീതിയിൽ നോക്കാൻ ശ്രമിക്കും കൂടാതെ നേരിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ ശക്തി എന്താണെന്നും പരിമിതികൾ എന്താണെന്നും നേരിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വിശദമായി നോക്കാം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും കാണാം